നമസ്കാരം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തത് 2 വളരെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് അതായത് സൂപ്പർ പൊസിഷൻ സിദ്ധാന്തവും തെവനിയൻ സിദ്ധാന്തവും അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് തുടരാം വേറെ ചില സിദ്ധാന്തങ്ങൾ വെച്ച് ഇവ വിശകലനം ചെയ്യുന്നതിനായി വളരെ പ്രാധാന്യം ഉള്ളതാണ് നമുക്ക് നോർട്ടൺ സിദ്ധാന്തം ഇന്ന് തുടങ്ങാം നമുക്ക് നോക്കാം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓർക്കുകയാണെങ്കിൽ അതായത് തെവനിയൻ സിദ്ധാന്തം തെവനിയൻ സിദ്ധാന്തം ഒരു ഫ്രഞ്ച് ടെലിഗ്രാഫ് എൻജിനീയർ 1883 യിൽ കണ്ടുപിടിച്ചതാണ് അത് കഴിഞ്ഞു 43 വർഷം കഴിഞ്ഞു 1926 യിൽ അമേരിക്കക്കാരനായ എഞ്ചിനീയർ ഇ നോർട്ടൻ ആണ് നോർട്ടൻ സിദ്ധാന്തം കണ്ടുപിടിച്ചത് USA യിൽ ഉള്ള ബെൽ ടെക്നിക്കലിലെ ടെലിഫോൺ ലാബിലെ എഞ്ചിനീയർ ആണ് നോർട്ടൻ അപ്പോൾ നോർട്ടൺ സിദ്ധാന്തം എന്നാൽ എന്ത് നോർട്ടൺ സിദ്ധാന്തം പറയുന്നത് 2 ടെർമിനൽ ഉള്ള ഒരു ലീനിയർ സർക്യൂട്ട്നെ ഒരു തുല്യത സർക്യൂട്ട് ആയി മാറ്റിവയ്ക്കാം സർക്യൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് റെസിസ്റ്റർ ആയിട്ട് പാരലലിൽ ഉള്ള ഒരു കറണ്ട് സ്രോതസ്സ് ആണ് ഇവിടെ എന്നാൽ ടെർമിനലിലൂടെ പോകുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ടും എന്നാൽ സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ആയിരിക്കുമ്പോൾ ടെർമിനലിൽ ഉള്ള ഇൻപുട്ട് അഥവാ തുല്യമായ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ വീണ്ടും ഓഫ് എന്നുപറഞ്ഞാൽ വോൾടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ഇനി തെവനിയൻ സിദ്ധാന്തവുമായി പരസ്പരബന്ധം വരുത്തിയാൽ തെവനിയൻ സിദ്ധാന്തത്തിൽ കണ്ടതുപോലെ നമുക്ക് വീണ്ടും കാണാം ൻ്റെ മൂല്യവും ൻ്റെ മൂല്യവും കണ്ടുപിടിക്കുന്നാതാണ് നമ്മുടെ പ്രധാന വിഷയം എന്ന് അതുപോലെതന്നെ നോർട്ടൺ സിദ്ധാന്തത്തിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഉം ഉം ആണ് അപ്പോൾ നമുക്ക് നോർട്ടൻ സിദ്ധാന്തം രണ്ടു ടെർമിനൽ ഉള്ള ലീനിയർ സർകൂട്ടിൽ നിന്ന് മനസ്സിലാക്കാം ഇത് നമുക്ക് പരിചയമായിട്ടുള്ള രണ്ടു ടെർമിനൽ ഉള്ള ലീനിയർ സർക്യൂട്ട് ആണ് നമുക്ക് ടെർമിനൽ എ ബി യിൽ നോർട്ടണിന് തുല്യമായ സർക്യൂട്ട് കണ്ടുപിടിക്കാം അപ്പോൾ തെവനിയൻ സിദ്ധാന്തത്തിൻ്റെ കേസിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അതായത് രണ്ടു ടെർമിനൽ ഉള്ള ഒരു ലീനിയർ സർക്യൂട്ട് തുല്യത സർക്യൂട്ട് ആയിട്ടോ തെവനിയൻ തുല്യത സർക്യൂട്ട് ആയിട്ടോ മാറ്റി വെയ്ക്കാം എന്നത് അപ്പോൾ അത് എന്ത് തുല്യത സർക്യൂട്ട് ആയിരുന്നു നിങ്ങൾ കണ്ടു തെവനിയൻ തുല്യത സർക്യൂട്ട് വേറൊന്നുമല്ല മറിച്ചു എന്ന വേറൊരു റെസിസ്റ്റൻസ് ആയിട്ട് സീരിസിൽ ഇത് രണ്ടു നോഡിൻ്റെയും ഇടയിൽ ആണ് പരിഗണിച്ചിരിക്കുന്നത് ഇനി നോർട്ടൺ സിദ്ധാന്തത്തിൻ്റെ കേസ് വീണ്ടും കാണുകയാണെങ്കിൽ എന്ത് സംഭവിക്കും സർക്യൂട്ടിനെ ഒരു നോർട്ടൻ തുല്യത സർക്യൂട്ട് ആയി മാറ്റും നോർട്ടൻ തുല്യത സർക്യൂട്ടിൽ ഉണ്ടാവുക റെസിസ്റ്റൻസ് ആയിട്ട് കറണ്ട് സ്രോതസ്സ് പാരലൽ ആയിട്ടാണ് അപ്പോൾ ഇതാണ് നോർട്ടൻ തുല്യത സർക്യൂട്ട് ഇത് രണ്ടു ടെർമിനൽ ലീനിയർ ആണ് ഇനി നിങ്ങൾ ഈ രണ്ട് സർക്യൂട്ട് നോക്കിയാൽ അതായത് തെവനിയനും നോർട്ടൻ തുല്യതയും ഇവ രണ്ടും വളരെ സദൃശ്യം ഉള്ളതായി കാണാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത സ്രോതസ്സ് പരിവർത്തനം നിങ്ങൾ ഓർമിച്ച് എടുത്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സ്രോതസ്സ് പരിവർത്തനം വഴി വോൾട്ടേജ് സ്രോതസ്സ് കറണ്ട് സ്രോതസ്സ് ലേക്ക് മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്ന് ഇവിടെ കറണ്ട് സ്രോതസ്സിനെ മൂല്യം വേറൊന്നുമല്ല പക്ഷേ ഈ വോൾട്ടേജ് സ്രോതസ്സ് സീരീസിലുള്ള റസ്റ്റൻറ്സ് ആയി ഹരിച്ചാൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തു പറയാം and അപ്പോൾ സ്രോതസ്സ് പരിവർത്തനം നടപ്പിലാക്കിയാൽ നിങ്ങൾക് അറിയുവാൻ സാധിക്കും തെവനിയൻ തുല്യത നോർട്ടൻ തുല്യത യിലേക്ക് മാറ്റുവാൻ സാധിക്കും എന്നത് ഈ സ്രോതസ്സ് പരിവർത്തന സമ്പ്രദായം ഉപയോഗിച്ച് നമുക്ക് പറയാം തെവനിയൻ റെസിസ്റ്റൻസ് വേറൊന്നുമല്ല പക്ഷേ നോർട്ടൺ റെസിസ്റ്റൻസ് ആണെന്ന് ഇനി നോർട്ടൺ തുല്യതാ കറണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കും അപ്പോൾ ഇതിൽ നോക്കുക ഇതൊരു 2 ടെർമിനൽ ലീനിയർ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ടെർമിനലുകളും ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം കൂടാതെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അളക്കണം ഇനി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വേറൊന്നുമല്ല പക്ഷേ നോർട്ടൻ കറണ്ട് ആണെന്ന് ഇനി നോർട്ടൺ തുല്യതാ സർക്യൂട്ട് നോക്കിയാൽ എ യും ബി യും ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ ഷോർട്ട് സർക്യൂട്ട് ടെർമിനലിലൂടെ ഒഴുകുന്ന കറണ്ട് അതായത് എ യുടെയും ബി യുടെയും ഇടയിൽ ഒഴുകുന്നത് അത് മറ്റൊന്നുമല്ല പക്ഷേ ആണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തതിനാൽ ഒരു പ്രാധാന്യമുള്ള ഘടകം ആകില്ല കാരണം ഇത് വീണ്ടും ഷോർട്ട് സർക്യൂട്ട് ആകും അതിനാൽ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആകും അങ്ങനെയെങ്കിൽ നമുക്ക് എന്തു പറയാം നമുക്ക് പറയാം നോർട്ടൺ തുല്യതാ സർക്യൂട്ട് നമ്മൾ വരച്ചാൽ നോർട്ടൺ തുല്യതാ സർക്യൂട്ടിൽ ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ കറണ്ട് അതായത് a യുടെയും b യുടെയും ഇടയിൽ ഇനി ഇത് രണ്ടും താരതമ്യം ചെയ്താൽ നമുക്ക് പറയാം ഈ രണ്ട് സർക്യൂട്ടും തുല്യമാണെന്ന് കാരണം അവയുടെ V I വിശേഷലക്ഷണം ടെർമിനൽ a യുടെയും b യുടെയും ഇടയിൽ സമം ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് എന്തു പറയാം നമുക്ക് പറയാം നോർട്ടൺ കറണ്ടിൻ്റെ മൂല്യം അതായത് വേറൊന്നുമല്ല പക്ഷെ ഷോർട് സർക്യൂട്ട് കറണ്ട് ആണ് a യുടെയും b യുടെയും കുറുകെ പ്രവഹിക്കുന്നത് ഇതു ഷോർട് സർക്യൂട്ട് ചെയ്തപ്പോൾ പല സർക്യൂട്ട് സമ്പ്രദായത്തിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇത് നിർണയിക്കാം കിർച്ചോഫ് കറണ്ട് ലോയോ കിർച്ചോഫ് വോൾടേജ് ലോയോ പോലെ തെവനിയൻ റെസിസ്റ്റൻസ് വേറൊന്നുമല്ല പക്ഷെ നോർട്ടൺ റെസിസ്റ്റൻസ് ആണ് കൂടാതെ നമ്മൾ തെവനിയൻ സിദ്ധാന്തം ചർച്ച ചെയ്തപ്പോൾ ഉപയോഗിച്ച അതേ സമ്പ്രദായം തന്നെ ഇവിടെയും ഉപയോഗിക്കാം നോർട്ടൺ റെസിസ്റ്റൻസ്ൻ്റെ മൂല്യം കണ്ടുപിടിക്കുവാൻ ഇനി നമ്മൾ തെവനിയൻ സിദ്ധാന്തത്തിൻ്റെ കേസിൽ ചർച്ച ചെയ്തത് പോലെ ഈ കേസിലും നമുക്ക് രണ്ട് ഹിതം ഉണ്ട് അതായത് നോർട്ടൺ റസിസ്റ്റൻസ്ൻ്റെ മൂല്യം കണ്ടുപിടിക്കാൻ രണ്ട് കേസുകൾ ഉണ്ട് ആദ്യത്തെ കേസ് എന്താണെന്നുവെച്ചാൽ ആശ്രിത ശ്രോതസ്സ് ഒന്നുമില്ലാത്ത നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വളരെയെളുപ്പത്തിൽ സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ആക്കണം അപ്പോൾ എന്തായിരിക്കും ൻ്റെ മൂല്യം വേറെ ഒന്നും ആകില്ല പക്ഷേ നെറ്റ്വർക്കിൻ്റെ ടെർമിനൽ എ യുടെയും ബി യുടെയും ഇടയിലേക്ക് നോക്കുന്ന വിധത്തിലുള്ള റെസിസ്റ്റൻസ് അതായത് നമ്മൾ മുന്നേ കണ്ട ചിത്രം എ ബിയുടെ വശത്തു നിന്ന് നോക്കിയാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വേറൊന്നുമാകില്ല പക്ഷേ നോർട്ടൺ റെസിഡൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കു ടെർമിനൽ എ യുടെയും ബി യുടെയും ഇടയിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടും രണ്ടാമത്തെ കേസ് എന്താണെന്നുവെച്ചാൽ നെറ്റ്വർക്കിൽ ആശ്രിത സ്രോതസ്സ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നെറ്റ്വർക്കിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള സ്വതന്ത്ര സ്രോതസ്സ് മാത്രമേ ഓഫ് ആക്കുവാൻ പറ്റുകയുള്ളു സർക്യൂട്ടിലേക് ഘടിപ്പിച്ചിട്ടുള്ള ആശ്രിത സ്രോതസ്സ് ഉപേക്ഷിച്ചിട്ട് ഇനി നമ്മൾ തെവനിയൻ സിദ്ധാന്തത്തിൽ കണ്ടത് പോലെ ഈ സിദ്ധാന്തത്തിലും ആശ്രിത സ്രോതസ്സ് ഓഫ് ആക്കുവാൻ പറ്റുകയില്ല കാരണം ഇവയെ നിയന്ത്രിതമാക്കിയിരിക്കുന്നതു സർക്യൂട്ടിലേ പരിവർത്തന വസ്തുക്കളാണ് അതിനാൽ ആശ്രിത സ്രോതസ്സുകൾ നമ്മൾ നെറ്റ്വർക്കിൽ തന്നെ വെക്കും എന്നിട്ട് നമ്മൾ ൻ്റെ മൂല്യം അതായത് നോർട്ടൺ കറണ്ടും അതായത് നോർട്ടൺ റെസിസ്റ്റൻസും സർക്യൂട്ട് പരിഹരിച്ച് കണ്ടുപിടിക്കും അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തെവനിയൻ സിദ്ധാന്തത്തിൽ ചെയ്തത് പോലെ തന്നെ വീണ്ടും ചെയ്യുക അതായത് ഇവിടെ വോൾട്ടേജ് വി സീറോ ടെർമിനൽ എ യിലും ബി യിലും പ്രയോഗിക്കുക എന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കുക ഇനി ഈ മൂല്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ൻ്റെ മൂല്യം കണ്ടുപിടിക്കാം അത് വേറൊന്നുമല്ല പക്ഷെ നു സമം അതിനാൽ നോർട്ടൺ റെസിസ്റ്റൻസും തെവനിയൻ റെസിസ്റ്റൻസും തുല്യമാണ് ഇനി നമുക്ക് തെവനിയൻ സർക്യൂട്ടും നോർട്ടൺ സർക്യൂട്ടും തമ്മിലുള്ള അടുത്ത ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോൾ സ്ഥാപിച്ചു റെസിസ്റ്റൻസ് നോർട്ടൺ റെസിസ്റ്റൻസ്നോട് സമമാണെന്ന് നമ്മൾ സ്രോതസ്സ് പരിവർത്തനത്തിൻ്റെ കേസിൽ ചർച്ച ചെയ്തത് പോലെ ഇവിടെ നമ്മൾ സ്ഥാപിക്കുകയാണ് കറണ്ട് സ്രോതസ്സ് പരിവർത്തനം ചെയ്യുമ്പോൾ നോർട്ടൺ കറണ്ട് വേറൊന്നുമല്ല പക്ഷേ ആയിരിക്കും എന്ന് അപ്പോൾ നമുക്ക് പറയാം സ്രോതസ്സ് പരിവർത്തനത്തിൻ്റെ സഹായത്തോടെ തെവനിയൻ സിദ്ധാന്തവും നോർട്ടൺ സിദ്ധാന്തവും എങ്ങനെയോ ബന്ധപ്പെട്ടിരിക്കുക ആണെന്ന് അതിനാൽ നോട് സമം ആണ് അതായത് നോർട്ടൺ കറണ്ടും നോട് സമം ആണ് ഇപ്പോൾ നമുക്ക് വളരെ ലളിതമായി പറയാം അത് വേറൊന്നുമല്ല പക്ഷേ ഒരു സ്രോതസ്സ് പരിവർത്തനം ആണെന്ന് അതിനാലാണ് സ്രോതസ്സ് പരിവർത്തനം തെവനിയൻ നോർട്ടൺ ആയിട്ടും വിളിക്കപ്പെടുന്നത് അപ്പോൾ മുകളിലത്തെ ബന്ധുത്വം വഴി നമുക്ക് മനസ്സിലാക്കാം ഉം ഉം ഉം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അതിനാൽ തെവനിയൻ തുല്യത സർക്യൂട്ടോ നോർട്ടൺ തുല്യത സർക്യൂട്ടോ കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ ഇവയെ കണ്ടു പിടിക്കുന്നതിനായി ഒരു സർക്യൂട്ട് വിശകലന സമ്പ്രദായം അതായതു മെഷ് വിശകലനമോ നോഡൽ വിശകലനമോ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എന്നിവ അജ്ഞാത പരിവർത്തനവസ്തുക്കൾ ആയിട്ട് ഉണ്ട് ഇത് നമുക്ക്കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് പൊതുവായി എന്ത് ചെയ്യാം ടെർമിനൽ എ യുടെയും ബി യുടെയും കുറുകെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നു കാരണം തെവനിയൻ വോൾട്ടേജിൻ്റെ കേസിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ടെർമിനൽ എ യിലും ബി യിലും ഉള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇത് നോർട്ടൺ തുല്യത കണ്ടുപിടിക്കുമ്പോൾ ആവശ്യമായി വരുന്നു കൂടാതെ ടെർമിനൽ എ യുടെയും ബി യുടെയും കുറുകെ കാണുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ്സും കണ്ടുപിടിക്കണം ഇത് എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും ഓഫ് ആയിരിക്കുമ്പോൾ ആണ് ഇത് വേറെ ഒന്നും ആകില്ല പക്ഷേ നു സമം ആയിരിക്കും അഥവാ നിങ്ങൾക്ക് പറയാം നു സമം ആയിരിക്കും എന്ന് കാരണം ഉം ഉം സമം ആണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം 3 അജ്ഞാത സംഖ്യകൾ ഉം ഉണ്ട് ഇവയിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് ഓംസ് ലോ ഉപയോഗിച്ച് മൂന്നാമത്തേത് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കിട്ടുന്ന വേറൊന്നുമല്ല പക്ഷെ ടെർമിനൽ എ ബി യ്ക്ക് കുറുകെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് നോർട്ടൺ കറണ്ട് വേറൊന്നുമല്ല പക്ഷെ രണ്ടും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുമ്പോൾ എ ബി യുടെ ഇടയിലൂടെ പ്രവഹിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് പിന്നെ അതായത് തെവനിയൻ റെസിസ്റ്റൻസ് വേറൊന്നുമല്ല പക്ഷെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഹരണം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇത് നോർട്ടൺ റെസിസ്റ്റൻസിനു തുല്യമായിരിക്കും ഇപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് പറയാം നമ്മൾ ടെർമിനൽ എ യ്ക്കും ബി യ്ക്കും കുറുകെ നടത്തിയ ഓപ്പൺ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുകൾ പര്യാപ്തമാണ് എന്ന് തെവനിയൻ തുല്യത സർക്യൂട്ടോ നോർട്ടൺ തുല്യത സർക്യൂട്ടോ കണ്ട് പിടിക്കുന്നതിനായി ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു സ്വതന്ത്ര സ്രോതസ് എങ്കിലും അടങ്ങിയിരിക്കണം ഇത് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ തെവനിയൻ സിദ്ധാന്തം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു ആശ്രിത സ്രോതസ്സ് ദൃഢീകരിക്കുന്നതിന് സ്വതന്ത്ര സ്രോതസ്സ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ൻ്റെ മൂല്യം നിര്ണയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അതുപോലെതന്നെ ഈ കേസിലും നമുക്ക് ആശ്രിത ശ്രോതസ്സ് ഇല്ലെങ്കിൽ സ്വതന്ത്ര സ്രോതസ്സ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കറണ്ടിൻറെ മൂല്യം ദൃഢപെടുത്തുവാൻ സാധിക്കുകയില്ല അതിനാൽ ഇത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട് എന്താണെന്നുവെച്ചാൽ ഒരു സ്വതന്ത്ര സ്രോതസ്സ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം അത് തെവനിയൻ അല്ലെങ്കിൽ നോർട്ടൺ തുല്യതയുടെ മൂല്യം കണ്ടുപിടിക്കുവാൻ ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിൻറെ സഹായത്തോടെ ആശയം മനസ്സിലാക്കാം അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ നമുക്ക് നോർട്ടൻ തുല്യത കണ്ടു പിടിക്കണം ഇപ്പോൾ നമുക്ക് തെവനിയൻ തുല്യതാ സർക്യൂട്ടിൻറെ മൂല്യം കണ്ടു പിടിച്ചത് പോലെ നോർട്ടൺ റസിസ്റ്റൻസ്ൻറെ മൂല്യവും കണ്ടുപിടിക്കാം ഇതിന് നമ്മളെന്തു ചെയ്യണം നമ്മൾ വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ടും ആക്കണം അപ്പോൾ നവീകരിച്ച സർക്യൂട്ട് എന്താണ് നവീകരിച്ച സർക്യൂട്ട് ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഇരിക്കും വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ടും ആയിരിക്കും നമുക്ക് റസിസ്റ്റൻസ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ നമുക്കിവിടെ 4 റസിസ്റ്റൻസ് അതായത് 8 ഓം 5 ഓം വീണ്ടും 8 ഓം 4 ഓം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഈ കൂട്ടായ്മയിലാണ് അതായത് അത് ടെർമിനൽ എ ബി യ്ക്ക് കുറുകെയുള്ള ഇൻപുട്ട് റെസിസ്റ്ററിനു കുറുകെ ഇത് വേറെ ഒന്നും ആയിരിക്കില്ല പക്ഷേ നോർട്ടൺ റസിസ്റ്റൻസ് ആയിരിക്കും അധവാ നമുക്ക് പറയാം തെവനിയൻ റെസിസ്റ്റൻസ് ഇതിൻറെ മൂല്യം എത്ര ആയിരിക്കും സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് ഇനി അടുത്ത നിയോഗം എന്തായിരിക്കും ഷോർട് സർക്യൂട്ട് കറണ്ട് ആ കേസിൽ നമ്മൾ എന്തുചെയ്യണം ആദ്യം തന്നെ ടെർമിനൽ എ യും ബി യും ഷോർട്ട് സർക്യൂട്ട് ആക്കുക എന്നിട്ട് ടെർമിനൽ എ യിലൂടെയും ബീ യിലൂയുടേയും പ്രവഹിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം ഇത് വേറെ ഒന്നും ആകില്ല പക്ഷേ നോർട്ടൺ കറണ്ട് ഇനി യഥാർത്ഥ സർക്യൂട്ട് നോക്കിയാൽ കാണാം നമ്മൾ ടെർമിനൽ എയും ബിയും ലളിതമായി ഷോർട്ട് സർക്യൂട്ട് ചെയ്തു ടെർമിനൽ എ യും ബി യും ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും സർക്യൂട്ട് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാം അഞ്ചു ഓം റെസിസ്റ്റൻസ് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കമ്പിയുമായി പാരലൽ ആണ് ഇതിൻറെ അർഥം 5 ഓം റെസിസ്റ്റൻസും ഷോർട്ട് സർക്യൂട്ടാണ് അതിനാൽ സർക്യൂട്ടിൽ 5 ഓം റെസിസ്റ്റൻസ് നമുക്ക് വകവയ്ക്കാത്തിരിക്കാം നമുക്ക് പറയാം മെഷ് കറണ്ട് ആണെന്ന് ഇത് മെഷ് കറണ്ട് 4 ഓമിലൂടെയും 8 ഓമിലൂടെയും പ്രവഹിക്കുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് കമ്പിയിലൂടെ പിന്നെയും 8 ഓമും 12 വോൾട് സ്രോതസ്സും ഇപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ രണ്ട് മെഷുകൾ ഉണ്ട് നമുക്ക് എന്ത് കിട്ടും ഈ മെഷുകളിൽ നിന്ന് ഈ മെഷ് ഒന്നിൽ നോക്കിയാൽ മെഷ് കറണ്ട് 2 ആംപിയറിനു തുല്യം ആണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സർക്യൂട്ടിൽ നിന്ന് കാണാം കാരണം രണ്ട് ആമ്പിയർ കറണ്ട് സ്രോതസ്സ് ആണ് ഉള്ളത് അതിനാൽ കറണ്ട് വേറൊന്നുമല്ല പക്ഷേ രണ്ട് ആമ്പിയർ ആണ് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറണ്ടിന്റെ മൂല്യമാണ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും വളരെ ലളിതമായി ഈ വാക്യം എഴുതുക ഇപ്പോൾ കറണ്ട് ന്റെ മൂല്യം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഉപയോഗിച്ചത് കറണ്ടിന്റെ മൂല്യം വേറൊന്നുമല്ല പക്ഷെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാരണം വേറൊന്നുമല്ല പക്ഷേ ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ് ഇത് ഒരു നോർട്ടൺ കറണ്ടും ആണ് കൂടാതെ നോർട്ടൺ കറൻറ് മൂല്യം നമുക്ക് ഒരു ആമ്പിയർ ആയി കിട്ടും അപ്പോൾ നോർട്ടൺ തുല്യതാ എന്തു കിട്ടും നമുക്ക് കിട്ടുന്ന നോർട്ടൺ തുല്യത ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കിപ്പോൾ ടെർമിനൽ എയും ബിയും ഉണ്ട് 4 ഓമും ഒരു ആമ്പിയർ ഉം ഉണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി ഈ സർക്യൂട്ടിൻറെ നോർട്ടൺ തുല്യത ഇത് ഷോർട്ട് സർക്യൂട്ട് ആക്കിയാൽ 4 ഓം റെസിസ്റ്റൻസ് ഒരു ആമ്പിയർ കറണ്ട് ആയിട്ട് പാരലൽ എന്ന രീതിയിൽ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നോർട്ടൺ തുല്യത കിട്ടി അടുത്തത് എന്തുചെയ്യാം അടുത്തത് തെവനിയൻ വോൾട്ടേജ് റെസിസ്റ്റർ ആയി ഹരിച്ചിട്ട് നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തെവനിയൻ സിദ്ധാന്തത്തിലെ അറിവ് ഉപയോഗിക്കണം എന്നിട്ട് ടെർമിനൽ എ കും ബി യ്ക്കും കുറുകെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം ഈ ചിത്രം വീണ്ടും കാണുകയാണെങ്കിൽ തെവനിയൻ റസ്റ്റൻറ്സ്ൻറെ മൂല്യം നമ്മൾ കണ്ടു പിടിക്കുന്നില്ല കാരണം നമുക്കറിയാം തെവനിയൻ റെസിസ്റ്റൻസ് നോർട്ടൺ റെസിസ്റ്റൻസ് ആയി തുല്യമാണെന്ന് അത് നമുക്ക് നാല് ഓം എന്ന് കിട്ടി ഇനി അടുത്ത കൃത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെവനിയൻ വോൾട്ടേജ്ൻറെ മൂല്യം കണ്ടുപിടിക്കണം ഇത് വേറൊന്നുമല്ല പക്ഷേ ടെർമിനൽ എബി യ്ക്ക് കുറുകെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് സർക്യൂട്ട് നോക്കിയാൽ രണ്ട് മെഷ് സർക്യൂട്ടിൽ കാണാം നമുക്ക് പറയാം മെഷ് കറണ്ട് യും ഉം എന്ത് ആയിരിക്കും യുടെ മൂല്യം യുടെ മൂല്യം 2 ആംപിയർ ആയിരിക്കും നമ്മൾ ഈ മെഷിൽ നിന്ന് നോക്കിയാൽ ഇനി വീണ്ടും ന്റെ മൂല്യം കണ്ടുപിടിക്കാൻ നമുക്ക് യിൽ നിന്ന് തുടങ്ങാം അതായത് നിങ്ങൾ തുടങ്ങുന്നത് മൈനസ് ഇൽ നിന്ന് പ്ലസ് ലേക്ക് കറണ്ടിന്റെ ദിശ ഈ സൈഡിൽ നിന്ന് ഇനി നിങ്ങൾക്ക് 4 റെസിസ്റ്റൻസ് കറണ്ടിന്റെ ദിശ ഇത് കറണ്ടിന്റെ ദിശ ഇത് അപ്പോൾ നിങ്ങൾക്കു ഈ ദിശയിൽ കിട്ടും ഈ ദിശയിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു അംഗം ആയിട്ട് ഈ എല്ലാ റസിസ്റ്റൻ സും ഒന്നിപ്പിച്ചിട്ട് ആയിട്ട് ഗുണീഭവിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ മെഷിൽ നിങ്ങൾ വികസിപ്പിച്ച ഈ സമവാക്യം കിട്ടും യുടെ മൂല്യം നിങ്ങൾക്ക് അറിയാവുന്നതു കൊണ്ട് യുടെ മൂല്യം ഇവിടെ ഇടും എന്നിട്ട് കിട്ടുന്നത് വേറൊന്നുമല്ല പക്ഷെ ആംപിയർ ആണ് ഇനി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്ജിന്റെ മൂല്യം എത്ര ആയിരിക്കും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്ജിന്റെ മൂല്യം ആയിരിക്കും അതായത് വേറൊന്നുമല്ല നിങ്ങളുടെ തെവനിയൻ വോൾടേജ് നമുക്കിപ്പോൾ തെവനിയൻ വോൾടേജ് കിട്ടി നമുക്ക് തെവനിയൻ റെസിസ്റ്റൻസും കിട്ടി ഈ ഫോർമുല വെച്ചിട്ട് നോർട്ടൺ കറണ്ട് വീണ്ടും കിട്ടുക അതായത് 1 ആംപിയർ ആയിട്ട് ഇതാണ് നമ്മൾ നോർട്ടൺ സിദ്ധാന്തം നേരിട്ട് പ്രയോഗിച്ചാൽ കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് പറയാം തെവനിയൻ സിദ്ധാന്തവും നോർട്ടൺ സിദ്ധാന്തവും രണ്ടും ദ്വിവിധമാണെന്ന് നമുക്ക് സ്രോതസ്സ് പരിവർത്തനം ഉപയോഗിക്കാം എന്നിട്ട് ഇതിനെ നോർട്ടണ്ണിൽ നിന്ന് തെവനിയൻ ലേക്കും തെവനിയനിൽ നിന്ന് നോർട്ടണ്ണിലേക്കും മാറ്റാം അപ്പോൾ അവസാനം നോർട്ടൺ തുല്യത കിട്ടും അവിടെ ഒരു ആംപിയർ 4 ഓം ആയിട്ട് പാരലൽ ആയിരിക്കും ഇനി നമുക്ക് വേറെ ഒരു ഉദാഹരണം എടുക്കാം അതായത് നോർട്ടൺ തുല്യതാ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ചിത്രം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്രോതസ്സ് അതായത് 4 ആമ്പിയർ കറണ്ട് രണ്ട് മെഷിലും ഒരു പോലെയാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സ്രോതസ്സ് പരിവർത്തന സമ്പ്രദായം ഉപയോഗിച്ച് നമുക്ക് നോർട്ടൺ കറൻറ്ന്റെ മൂല്യം കണ്ടു പിടിക്കാൻ പറ്റും എന്നാൽ നമുക്ക് ആദ്യം നോർട്ടൺ റെസിസ്റ്റൻസിന്റെ മൂല്യം കണ്ടുപിടിക്കാം അതായത് ടെർമിനൽ എ യിലും ബി യിലും നിന്ന് നിങ്ങൾ കാണുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തു ചെയ്യണം നമ്മൾ വോൾട്ടേജ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് ഇത് മൂന്ന് ഓം അത് ഓപ്പൺ സർക്യൂട്ട് ആകും കാരണം കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് അപ്പോൾ നിങ്ങൾക്ക് 6 ഓം കിട്ടും ഇത് 3 ഓം ഇത് ടെർമിനൽ എ യും ബി യും അപ്പോൾ നവീകരിച്ച സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും 3 ഓം കൂടാതെ മൂന്നും സീരീസിൽ ആണെന്ന് ഈ സീരീസ് 6 ഓം ആയിട്ട് പാരലൽ ആണ് 6 ഓം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും 6 ഓം വേറൊരു 6 ഓം റെസിസ്റ്റർ ആയിട്ട് പാരലൽ ആയി കിട്ടും അപ്പോൾ വളരെ ലളിതമായി ന്റെ മൂല്യം കണ്ടുപിടിക്കാം വേറെയൊന്നുമല്ല പക്ഷെ 6 ഓം വേറെ 6 ഓം ആയി പാരലൽ ആയിട്ടു അത് വേറെയൊന്നുമല്ല 3 ഓം അപ്പോൾ നോർട്ടൺ റെസിസ്റ്റൻസ് കിട്ടി ഇനി അടുത്ത കൃത്യം നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കുവാൻ ആണ് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നോർട്ടൺ കറണ്ടിന്റെ കണക്കുകൂട്ടൽ ചെയ്യാം ടെർമിനൽ എ ബി വെറുതെ ഷോർട് സർക്യൂട്ട് ചെയ്യുക സർക്യൂട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് പ്രയോഗിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ട് ഇനി ഈ ടെർമിനൽ എബി ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഉള്ളപ്പോൾ 6 ഓം റെസിസ്റ്റൻസ് അപ്രധാനമാകും അപ്പോൾ നിങ്ങൾക്ക് 4 ആംപിയർ കറണ്ട് സ്രോതസ്സ് 3 ഓം റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ട് കൂടാതെ 15 വോൾട്ട് വോൾടേജ് സ്രോതസ്സ് 3 ഓം റെസിസ്റ്റൻസ് ആയിട്ട് സീരിസിലും ഉണ്ട് ഇനി സർക്യൂട്ടിന്റെ ഈ ഭാഗം നോക്കുക സർക്യൂട്ടിന്റെ ഈ ഭാഗം വേറൊന്നുമല്ല പക്ഷെ ഇവിടെ വോൾടേജ് സ്രോതസ്സ് സീരിസ്സിൽ 1 കറണ്ട് വോൾടേജ് സ്രോതസ്സ് സീരിസ്സിൽ 1 റെസിസ്റ്റൻസ് സ്രോതസ്സ് പരിവർത്തനം പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ഈ കറണ്ട് സ്രോതസ്സ് റെസിസ്റ്റൻസ് ആയിട്ട് പാരലൽ ആയിട്ടുള്ളതിനെ മാറ്റും കറണ്ട് സ്രോതസ്സ്ന്റെ മൂല്യം എത്ര ആയിരിക്കും കറണ്ട് സ്രോതസ്സ്ന്റെ മൂല്യം 15 ബൈ 3 ആയിരിക്കും അത് വേറൊന്നുമല്ല പക്ഷെ 5 ആംപിയർ കറണ്ട് കൂടാതെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പാരലൽ ആയിരിക്കും റെസിസ്റ്റൻസിന്റെ ആ മൂല്യം 3 ഓം ആയിരിക്കും ഇനി നിങ്ങൾക്ക് കറണ്ട് സ്രോതസ്സ് ഉണ്ട് വേറെ ഒരു 3 ഓം റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ ടെർമിനൽ എ യും ബി യും ഉണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് ഇനി നിങ്ങൾ ഈ രണ്ട് കറണ്ട് സ്രോതസ്സുകൾ പാരലൽ ആണ് അതിനാൽ പുതുക്കിയ കറണ്ട് സ്രോതസ്സ് രണ്ടും കൂട്ടി ചേർക്കാം ഇനി ഇത് 9 ആംപിയർ ആകും ഇനി നിങ്ങൾക്ക് വേറെ റെസിസ്റ്റൻസ് 3 ഓം പാരലൽ ആയിട്ട് 3 ഓം റെസിസ്റ്റൻസ് സീരിസ്സ് ആയിട്ട് കൂടാതെ ടെർമിനൽ എ യും ബി യും ഇനി നിങ്ങൾക് അറിയാം സർക്യൂട്ട് തിരിച്ചു വോൾടേജും റെസിസ്റ്റൻസ് സീരിസിലും ആയിട്ട് പരിവർത്തനം ചെയാം എന്ന് അങ്ങനെ എങ്കിൽ എന്ത് സംഭവിക്കും വോൾട്ടേജ് ചോദ്യത്തിലേക്ക് വീണ്ടും പരിവർത്തനം ചെയ്താൽ ഇത് ഒമ്പത് ഗുണിതം മൂന്ന് അതായത് 27 ഒറ്റ ആകും വോൾട് ഇത് സീരീസിൽ 3 ഓം റസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും സീരീസിൽ മൂന്ന് ഓം റസിസ്റ്റൻസ് ആയിട്ട് ഇത് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു ടെർമിനൽ എയും ബിയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് വളരെ ലളിതമായിരിക്കു ന്നു ഇത് സർക്യൂട്ടിൽ കാണാം എന്തായിരിക്കും ഷോർട്ട് സർക്യൂട്ട് കറൻറ്ന്റെ മൂല്യം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ മൂല്യം വോൾട്ടേജ് സ്രോതസ്സ് 27 6 മായി ഹരിച്ചിട്ടു അതായത് നമുക്ക് 4 5 ആംപിയർ കിട്ടും ഇപ്പോൾ നമുക്ക് നോർട്ടൺ കറണ്ട് അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 4 5 കിട്ടി അപ്പോൾ എന്താണ് നോർട്ടൺ തുല്യത നോർട്ടൺ തുല്യത എന്ന് വെച്ചാൽ 4 5 ആംപിയർ കറണ്ട് സ്രോതസ്സ് ടെർമിനൽ എ യ്ക്കും ബി യ്ക്കും കുറുകെ ആയിട്ടുള്ള റെസിസ്റ്റൻസ് അപ്പോൾ നോർട്ടൺ തുല്യത നിങ്ങൾക്കു കിട്ടി അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇന്നത്തെ സെഷൻ നിർത്തുന്നു ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത് നോർട്ടൺ സിദ്ധാന്തം പ്രത്യേകിച്ച് സ്വതന്ത്ര വോൾടേജ് സ്രോതസ്സോ സ്വതന്ത്ര കറണ്ട് സ്രോതസ്സോ ലഭ്യമാകുമ്പോൾ അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോർട്ടൺ സിദ്ധാന്തത്തിൻറെ ചർച്ച തുടരും അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആശ്രിത സ്രോതസ്സ് സർക്യൂട്ടിൽ ഉള്ളപ്പോൾ ഉള്ള വ്യവസ്ഥിതികൾ ആണ് ഈതരത്തിലുള്ള സർക്യൂട്ടുകൾ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം